നമ്മൾ ഈ കണക്കുകൂട്ടൽ നടത്തി നിങ്ങൾ സ്റ്റാൻഡ്ബൈ മോഡിലേക്ക് പോയാൽ പവർ ഉപഭോഗം വെറും 0 66 വാട്ട്സ് മാത്രമാണ് എന്ന് നമ്മൾ കണ്ടെത്തി അതിനാൽ നമുക്ക് ഇപ്പോൾ നോക്കാം നമ്മൾ എന്താണ് ആരംഭിച്ചത് നമ്മൾ ബെയറിംഗുകളുടെ അവസ്ഥ എങ്ങനെ അളക്കാമെന്ന പ്രശ്നത്തോടെ ആരംഭിച്ചു നമ്മൾ പറഞ്ഞ ബെയറിംഗ് അവസ്ഥ നോക്കുമ്പോൾ ബെയറിംഗിന്റെ താപനില അളക്കാം എന്ന് നമ്മൾ പറഞ്ഞു താപനില ഒരു നല്ല സൂചകമാണ് നമ്മൾക്ക് നേരിട്ട് താപനില അളക്കാൻ കഴിഞ്ഞില്ലകാരണം അത് ഇൻവേസീവ് അല്ലാത്ത രീതിയിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ നമ്മൾ കാന്തികക്ഷേത്രം നോക്കി ഒപ്പം കാന്തികക്ഷേത്രത്തിലെ മാറ്റം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കി ആരംഭിച്ചു കാന്തികക്ഷേത്രത്തിലെ വ്യതിയാനത്തെ ബെയറിംഗിന്റെ താപനിലയിലെ ഉയർച്ചയുമായി ബന്ധിപ്പിക്കാം അതാണ് നിങ്ങൾ സ്ഥാപിക്കേണ്ട മാപ്പിംഗ് എന്ന് നമ്മൾ പറഞ്ഞു എന്നിട്ട് നമ്മൾ ഡെമോ കാണിച്ചു അതായത് ഗ്രാഫിക് ലാബ് സ്കെയിൽ സിസ്റ്റം കാണിച്ചു എന്നതിനർത്ഥം യഥാർത്ഥത്തിൽ ഇത് ഈ അളവെടുക്കും ഇപ്പോൾ നിങ്ങൾ ഈ താപനിലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ താപനില അളക്കൽ നിസ്സാരമല്ല ഉദാഹരണമായി ഒരു സെൻസർ നോക്കാം അതിനാൽ നമ്മൾ ഈ കോഴ്സിൽ താപനില ഒരു പ്രധാന സെൻസറായി നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ നോക്കുകഈ അളവെടുപ്പ് ഒരിക്കലും നിസ്സാരമാകില്ല ഈ താപനിലയുടെ അളവെടുക്കൽ നിങ്ങൾ ഏത് തരത്തിലുള്ള അപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ അളവെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു പുതിയ നവജാത ശിശുവിന്റെ മോണിറ്ററിംഗിന്റെ കാര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നവജാത ശിശുക്കളെ ചില കാരണങ്ങളാൽ അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്തരമൊരു അളവെടുക്കാൻ നിങ്ങൾ നടത്തുന്ന രീതി എന്നത് ഒരു തരമാണ് എങ്കിൽ നിങ്ങൾ അവസ്ഥ മോണിറ്ററിംഗ്നടത്തുന്നത് മറ്റൊരു തരമാണ് നിങ്ങൾക്ക് ചൂട് കണ്ടെത്തുന്നത് നോക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് മറ്റൊരു തരമാണ് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും താപനിലയുടെ ഒരു പ്രധാന അളവാണ് നോക്കുന്നത് അത് നിങ്ങൾ ഐആർ താപനില നോക്കുന്നു ഇൻഫ്രാറെഡ് താപനില നിങ്ങൾ ഐആർ താപനില തെർമൽ സെൻസറുകളിലേക്ക് നോക്കുകയാണ് ഇവയ്ക്ക് നിങ്ങൾക്കായി വളരെയധികം ചെയ്യാൻ കഴിയും അതിനാൽ ഇൻഫ്രാറെഡ് താപനില സെൻസറുകൾ ഉപയോഗിച്ച് താപനിലയുടെ ഈ അളവ് നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യസ്ത അപ്ലിക്കേഷനുകൾ ക്കായുളള അവയുടെ ഒരുപാട് എണ്ണം കാണാൻ കഴിയും നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ എടുക്കുകയും ഓട്ടോമൊബൈലിനുള്ളിലെ താപനില അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽനിങ്ങൾക്ക് ആ അപ്ലിക്കേഷനായുള്ള വ്യത്യസ്ത തരം താപനില സെൻസറുകൾ ഉണ്ട് ക്ഷമിക്കണം ഞാൻ ഇത് കണക്റ്റുചെയ്യേണ്ടതുണ്ട് മറ്റൊരു ചക്രം കാണിക്കുന്നതിലൂടെ അത് ശരിയാണ് നമ്മൾ ഒരു വാഹനത്തിനുള്ളിലെ താപനില അളക്കുന്നതിനാണ് നോക്കുന്നത് ഒരു വാഹനത്തിനുള്ളിലെ താപനില അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാം ഇന്ധനക്ഷമതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ ഒരു എ സി ബസ് ഉണ്ടെന്ന് കരുതുക ഇതിനുള്ളിൽ ഈ എ സി എത്ര നല്ലതാണെന്ന് നിങ്ങൾ നോക്കുന്നു ഈ ബസിനുള്ളിലെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ എസി പ്രവർത്തിക്കാത്തത് ശരിയായി തണുപ്പിക്കാത്തത് എവിടെയാണ് അതിനാൽ നിങ്ങൾ സിസ്റ്റത്തിനുള്ളിലെ ഇവിടെ അടച്ച വാഹനത്തിനുള്ളിലെ താപനിലയുടെ പ്രത്യേക അളവെടുക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ അവിടെ ഒരു തരം താപനില സെൻസർ ഇടും നിങ്ങൾ അതിന്റെ കൃത്യതയക്കുറിച്ച് വളരെയധികം വിഷമിക്കേണ്ട 1 ഡിഗ്രി പോലും എന്നാൽ ഞാൻ പറയുന്നു ഒരു ശിശു നിരീക്ഷണത്തിന്ഒരു നവജാതശിശു നിരീക്ഷണ സംവിധാനത്തിന് കൃത്യമായ താപനില നിരീക്ഷണം ആവശ്യമാണ് നിങ്ങൾ ബന്ധപ്പെടുന്നതിനുള്ള ഒരു പുതിയ നേറ്റൽ മോണിറ്ററിംഗ് ശിശു താപനിലയെ അടിസ്ഥാനമാക്കിയുള്ള അളവ്ശരിയായ മാർഗംറെക്ടൽ അളവാണ് എല്ലാം റെക്ടൽ അളവുകളുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യന്റെ ശരീര താപനിലയുടെ കൃത്യമായ അളവെടുപ്പിനായി മിക്ക ആശുപത്രികളിലും റെക്ടൽ പ്രോബ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ നിങ്ങൾ ആശുപത്രിക്ക് പുറത്താണെങ്കിൽഅത് നിങ്ങൾക്ക് ഒരിക്കലും എളുപ്പമാകില്ല ഒരു താപനില മാത്രം അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് ഒരിക്കലും എളുപ്പമാകില്ലെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാന ശരീര താപനില അളക്കാൻ മറ്റ് വഴികളുണ്ട് അടിസ്ഥാന ശരീര താപനിലയോട് കഴിയുന്നത്ര അടുത്ത് അളക്കാൻ ഒരു ഐഒടി സിസ്റ്റം നിർമ്മിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ഇൻവേസീവ് അല്ലാത്ത ഒരു രീതി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഇൻവേസീവ് അല്ലാത്ത ഒരു രീതി മറ്റൊരു കാരണത്താൽ ആകർഷകമാണ് പ്രത്യേകിച്ചും നിങ്ങൾ ശരീര താപനിലയോ രോഗിയുടെ ചുറ്റുമുള്ളവയോ നിരീക്ഷികുകയാണെങ്കിൽ കാരണം അണുബാധയുമായി ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കാത്തതിനാൽ അതിനാൽ പകർച്ചവ്യാധിയായ ചില അണുബാധ മൂലം ശരീര താപനിലയിൽ വർദ്ധനവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ആളുകൾ വരാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല നിങ്ങൾക്കറിയാം ആളുകൾ ആ പ്രത്യേക അണുബാധയുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അണുബാധ ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ഒരു ഇൻവേസീവ് അല്ലാത്ത രീതി ഉപയോഗപ്രദമാണ് അതിനാൽ നിങ്ങൾ എന്തുചെയ്യുന്നു അത്തരമൊരു താപനില മനുഷ്യന്റെ അടിസ്ഥാന ശരീര താപനിലയ്ക്കായി നവജാതശിശു അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ എന്ന് നമുക്ക് പറയാംഇപ്പോൾ അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽനിങ്ങൾ ഇപ്പോൾ ഒരു സാങ്കേതികത അളക്കാൻ ഉപയോഗിക്കും ഈ സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാനായി ഞാൻ ചൂണ്ടിക്കാണിക്കും നിങ്ങൾക്ക് ഈ മനോഹരമായ ചെറിയ സെൻസർ ഇവിടെയുണ്ട് ആ സെൻസർ ഇവിടെ ഉള്ളതായി നിങ്ങൾ കാണുന്നു ഇത് ഞങ്ങൾ ലാബിൽ ചെയ്ത ബാറ്ററി പായ്ക്ക് ആണ് അതിനാൽ ഞാൻ ഒരു ലാബ് സ്കെയിൽ ബാറ്ററി പായ്ക്കും എടുത്തു അകത്ത് നിങ്ങൾ കാണുന്നത് ഒരു മെഡിക്കൽ ഗ്രേഡ് ആണ് ഇത് ഒരു മെഡിക്കൽ ഗ്രേഡ് ഐ ആർ തെർമോമീറ്ററാണ് എന്താണ് ഇതിനർത്ഥം അതിനർത്ഥം കൃത്യത വളരെ പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് എന്നാണ് ആ കൃത്യത 0 1 ഡിഗ്രി സെൽഷ്യസും ആണ് ഏതൊരു വൈദ്യശാസ്ത്രത്തിനും കൃത്യത അളക്കുന്നതിന്റെ കൃത്യത 0 1 ഡിഗ്രി സെൽഷ്യസ് വരെ അടുത്ത് നിങ്ങൾ പരിപാലിക്കണം ഇത് അങ്ങനെയായിരിക്കില്ല നമ്മൾ ഇത് എങ്ങനെ അളക്കും എങ്ങനെ നിങ്ങൾ ഒരു പ്രധാന താപനില അളക്കാമെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും അടിസ്ഥാന ശരീര താപനില ശരിയായി ഞാൻ എഴുതട്ടെ ഞാൻ പറഞ്ഞതുപോലെ താപനില അളക്കൽ നിസ്സാരമാകില്ല നിങ്ങൾ അത് എങ്ങനെ ചെയ്യും ഇത് എങ്ങനെ ചെയ്യാമെന്നതിന്റെ ഒരു പ്രകടനം ഞാൻ കാണിച്ചുതരാം ഒരു ലളിതമായ വഴി ഒരുപക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഒരു വഴി ഒരു സാങ്കേതികത ഈ താപനില നിങ്ങളുടെ നെറ്റിയിൽ ഈ തെർമോമീറ്റർ പിടിക്കുന്നു പ്രധാനമായും നിങ്ങൾ കാണുന്ന ടെംപിൾ മേഖലയിലെ ദൂരത്തിൽ ഒരു കോൺ ഉണ്ട് ഇവിടെ ഞാൻ കോണിന്റെ ദൂരം ക്രമീകരിക്കുന്നു ഈ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഒരു അളവെടുപ്പ് നടത്താനാകും ഈ മൂല്യം എവിടെ വരും വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂല്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലളിതമായി വരും ഇതുപോലുള്ള ഒരു ഫോണിൽ നിങ്ങൾക്ക് അളവെടുക്കാനും ഈ മൂല്യം പ്രദർശിപ്പിക്കാനും കഴിയും ഈ ഉപകരണത്തിനും ഫോണിനുമിടയിൽ നിങ്ങൾ സംസാരിക്കുന്ന ആശയവിനിമയം ഏത് തരത്തിലുള്ളതാണ് മിക്കപ്പോഴും ആളുകൾ സംസാരിക്കുന്നത് ബ്ലൂടൂത്ത് ലോ എനർജിയെക്കുറിച്ചാണ് അതിനെ ബി എൽ ഇ എന്നും വിളിക്കുന്നു ബി എൽ ഇ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ നിലവിലുണ്ട് കഴിഞ്ഞ തവണ ബി എൽ ഇ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആണെന്ന് നമ്മൾ സൂചിപ്പിച്ചു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഒരു ബ്ലൂടൂത്ത് ലോ എനർജി ലിങ്കാണ് ഞാൻ എങ്ങനെ ഈ അളവെടുത്തു ഞാൻ ഈ അളവ് കണക്കാക്കിയത് ടെംപറൽ ആർട്ടറിയിൽ നിന്ന് വന്ന ചൂട് ഉപയോഗിച്ച് താപനില വായിച്ചുകൊണ്ടാണ് ടെംപറൽ ആർട്ടറിയിൽ സമാന്തരമായി എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് കാണുക നിങ്ങൾ ഒരു അളവെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് മനസിലാക്കാൻ നമ്മൾ വളരെയധികം സമയം ചെലവഴിക്കുന്നു അതിനാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്ങ്സിന്റെ രൂപകൽപ്പനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആശയം എന്തെന്നാൽ ഓർമ്മിക്കുക ആപ്ലിക്കേഷൻ വളരെ പ്രധാനമാണ് ആപ്ലിക്കേഷൻ വളരെ നിർണ്ണായകമാണ് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്താണെന്ന് നോക്കിയാൽ ബോൾ ബെയറിംഗുകളുടെ താപനില അവസ്ഥ നിരീക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തു എന്ന് നോക്കുമ്പോൾ നമ്മൾ അവിടെ താപനില അളക്കുന്നു ഇത് നേരിട്ടുള്ള അളവെടുപ്പ് ആയിരുന്നില്ല കാരണം ബെയറിംഗുകൾ കറങ്ങുന്ന ഏതെങ്കിലും യന്ത്രങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഘടകങ്ങൾഓട്ടോമൊബൈലിൽ വളരെ ആഴത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നതിനാൽ നമ്മൾ അത് ഇൻവേസീവ് അല്ലാത്ത രീതിയിൽ എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് കണ്ടെത്തി അതിനാൽ നമ്മൾ അവിടെ പരോക്ഷമായ രീതിയിൽ അളക്കാൻ തുടങ്ങി ഇവിടെയും എന്താണ് ചെയ്യുന്നതെന്നു നോക്കുക ശരീരത്തിന്റെ അടിസ്ഥാന താപനിലയാണ് നമ്മൾ അളക്കുന്നത് അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അടിസ്ഥാന ശരീര താപനില റെക്ടൽ പ്രോബ് ഉപയോഗിച്ച് അളക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അതിനാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് റെക്ടൽ പ്രോബ് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾക്ക് വീടുകളിൽ വളരെ എളുപ്പത്തിൽ റെക്ടൽ പ്രോബ് ഉൾപ്പെടുത്താൻ കഴിയില്ലഅത് ആശുപത്രികളിലെ സാധ്യമാകൂ ഈ ചെറിയ ഇലക്ട്രോണിക് ഉൽപ്പന്നം ഉപയോഗിച്ചുളള സിസ്റ്റത്തിലൂടെ അളവെടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു ഇത് പ്രധാനമായും ഒരു മൊബൈൽഫോണിലേക്ക് ആശയവിനിമയം നടത്തുന്നു കൂടാതെ ഫോണിനും ഈ ഉപകരണത്തിനും ഇടയിൽ ബ്ലൂടൂത്ത് ലോ എനർജി ഉപയോഗിക്കാം ഇത് ടെംപറൽ ആർട്ടറിയെ അളക്കുന്നു അതിനാൽ നിങ്ങൾക്ക് താൽപ്പര്യമുളള അതേ താപനില താൽപ്പര്യമുളള അതേ പാരാമീറ്റർ കാണുന്നു പക്ഷേ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഐ ഒ ടി ഉപകരണം ആവശ്യമാണ് നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ഐ ഒ ടി സിസ്റ്റം പൂർണ്ണമായും വ്യത്യസ്തമാണ് സെൻസർ വ്യത്യസ്തമാണ് നിങ്ങൾ അളക്കുന്ന രീതിപാക്കേജ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് ഉൽപ്പന്നം വ്യത്യസ്തമായി കാണപ്പെടും ഉദാഹരണത്തിന് ഇത് ത്രീ ഡി അച്ചടിച്ചതാണ് ഇത് ഒരു ത്രീ ഡി പ്രിൻൻറ്ഡ് മൊഡ്യൂളാണ് നിങ്ങൾ ഈ കോൺ കാണുന്നു കാരണംനിങ്ങൾ ടെംപറൽ ആർട്ടറിയോട് കഴിയുന്നത്ര അടുത്ത് ആയിരിക്കണം വ്യക്തമായും നിങ്ങൾ ഇത് നവജാതശിശുവിന്പ്രത്യേകിച്ച് ഒരു ദിവസം രണ്ട് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് പ്രയോഗിക്കാൻ പോകുന്നു എങ്കിൽ വളരെ മൃദുവായ വസ്തുവിൽ നിന്നാണ് നിർമ്മിക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നും ശല്യപ്പെടുത്താനാവില്ല ചർമ്മം വളരെ മൃദുവായതാണ് അവിടെ ഒന്നും ശല്യപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ശരിക്കും മുഴുവൻ പാക്കേജിംഗ് ശിശു സൌഹൃദമായിരിക്കണം അതിനാൽ അത് മറ്റൊരു കാര്യം നിങ്ങൾ ഇപ്പോഴും നവജാതശിശുവിനെ അളക്കാൻ ഈ താപനില ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ അടിസ്ഥാന ശരീര താപനില അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇൻകുബേറ്റർ അളക്കാൻ ആഗ്രഹിക്കുന്നു ഇൻകുബേറ്ററും കുഞ്ഞുങ്ങൾക്കായാണ് പക്ഷേ ഇൻക്യുബേറ്റർ താപനില നിങ്ങൾ അളക്കുമ്പോൾ നിങ്ങൾ ഇത് പോലെ ഒന്നിലേക്ക് പോകും നിങ്ങൾക്ക് ഇതുപോലൊന്ന് ചെയ്യാൻ കഴിയും ഇത് എന്താണ് അൽപ്പം ആഴത്തിൽ പോകാം ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ഇവിടെ കണ്ട അതേ സെൻസറാണ് ഇതെന്ന് കാണും പക്ഷേ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ടെന്നും അത് ഒരു ഫോണിൽ നിന്ന് ഒരു ഫോണിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ ആശയവിനിമയമാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഇവിടെ ഒന്നിന് പകരം രണ്ട് സെൻസറുകൾ ഈ ചെറിയ ഇലക്ട്രോണിക് ഉപകരണത്തിലേക്ക് കണക്റ്റു ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഉപകരണത്തിന്റെ പേര് എഴുതുന്നു നിങ്ങൾക്ക് വളരെ സൌജന്യമായി വാങ്ങാൻ കഴിയുന്ന വളരെ രസകരമായ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണിത് ഇത് ബ്ലെൻഡ് മൈക്രോ എന്ന കമ്പനിയിൽ നിന്നാണ് പ്രധാനമായും എല്ലാ ആർഡുനോയും ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ ബ്ലെൻഡ് മൈക്രോ സിസ്റ്റത്തിൽ നേരിട്ട് പ്രവർത്തിക്കും നമുക്ക് തിരികെ ശ്രദ്ധ കൊടുക്കാം ബ്ലെൻഡ് മൈക്രോയിൽ നിന്നുള്ളതാണിത് അതിലുള്ളത് നമ്മൾ അവസാനമായി ചർച്ച ചെയ്തതുപോലുള്ള ഒരു എസ്ഒസിയാണ് ഇത് നോർഡിക് സെമികണ്ടക്റിൽ നിന്നുള്ളതാണ് ഇതിന് ബ്ലൂടൂത്ത് ലോ എനർജി കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഉണ്ട് കൂടാതെ ഇത് ഒരു എ ആർ എം മൈക്രോകൺട്രോളർ ആയതിനാൽ അതിൽ നിന്ന് വായിക്കാൻ കഴിയും ഇല്ല ക്ഷമിക്കണം ഇത് എ ആർ എം ആണെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഇത് നോക്കേണ്ടതുണ്ട് എന്നാൽ ഇത് ഒരു എസ്ഒസി ആണ്മൈക്രോകൺട്രോളർ ഉണ്ട് ഇതിന് ഒരു റേഡിയോ ഉണ്ട് അത് പ്രധാനമായും ഒരു ബ്ലൂടൂത്ത് ലോ എനർജി റേഡിയോ സിസ്റ്റം ആണ് ഇതിന് ഇതിൽ നിന്നും ഈ സിസ്റ്റത്തിൽ നിന്നും വായിക്കാൻ കഴിയും കാരണം ഇത് ഇപ്പോൾ ഒരു ഇൻകുബേറ്ററിൽ സ്ഥാപിച്ചിരിക്കുന്നു കുഞ്ഞിനെ ഇതിന് മുകളിൽ വച്ചിരിക്കുന്നു ചുവടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു കുട്ടികളുടെ കിടക്ക പോലെയാണ് എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാം പാക്കേജ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ കുഞ്ഞിനെ മുകളിൽ വയ്ക്കുന്നു ഒന്നുകിൽ നിങ്ങൾക്ക് കുഞ്ഞിന്റെ അളക്കാൻ കഴിയും അല്ലെങ്കിൽ ഇൻകുബേറ്ററിലൂടെ കുഞ്ഞിന്റെ താപനില അളക്കാൻ കഴിയും രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള താപനില പൂർണ്ണമായി ശേഖരിച്ച് ഒരു നവജാതശിശു ഇൻകുബേറ്ററിന്റെ താപനില അളക്കാൻ നിങ്ങൾക്ക് കഴിയും അത് കൃത്യമായി അളക്കാൻ സാധിക്കും ഇവ ഉറപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ പിസിബി നിർമ്മിച്ചതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾക്കായി ഞാൻ ഈ ചിത്രം വരയ്ക്കാം എല്ലാ ഐഒടി ഡിസൈൻ കോഴ്സുകളും നിങ്ങൾ എങ്ങനെ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ നിർമ്മിക്കും എന്നതിനെക്കുറിച്ചാണ് അതിനാൽ ഈ ചിത്രം നിങ്ങൾക്കായി വീണ്ടും സംഗ്രഹിക്കാം ഒരു മൈക്രോകൺട്രോളർ ഉണ്ട് അവിടെ ഒരു മൈക്രോകൺട്രോളർ കൂടാതെ ഒരു മെഡിക്കൽ ഗ്രേഡ് ഐആർ തെർമോമീറ്ററും ഉണ്ട് ഞാൻ എഴുതട്ടെ ഇത് തെർമോമീറ്റർ ലാളിത്യത്തിനായി ഞാൻ രണ്ടാമത്തേത് ഇവിടെ കാണിക്കും ഇത് 2 ആണ് ഇത് ശരിയായ മെഡിക്കൽ ഗ്രേഡ് തെർമോമീറ്ററാണ് അത്തരമൊരു സംവിധാനം നിർമ്മിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മെലാക്സിസ് നോക്കാം മെലാക്സിസ് ഒരു യൂറോപ്യൻ കമ്പനിയാണ് അവർ നവജാത ശിശുകൾക്കായി ഈ മെഡിക്കൽ ഗ്രേഡ് ഐ ആർ തെർമോമീറ്ററുകൾ നിർമ്മിക്കുന്നു ഇപ്പോൾ നമുക്ക് തിരിച്ചുവരാം നിങ്ങൾക്ക് ഒരു അളവെടുപ്പ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു താപ പ്രൊഫൈലിംഗ് ചെയ്യണം ഒരു ഓട്ടോമൊബൈലിന്റെ തെർമൽ പ്രൊഫൈലിംഗിന് ഏത് തരം സെൻസറാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനുമുമ്പ് ഞാൻ ഈ താപനില അളക്കുന്ന വിഷയത്തിൽകുറച്ച് കാണിക്കും സമയം 1918 കാണുക ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്നാൽ വർഷങ്ങൾക്കുമുമ്പ് ഞാൻ വിനോദത്തിനായി ലാബിൽ പരീക്ഷിച്ച ഒരു നല്ല ആശയം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു എന്നതാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിയും എല്ലാ സമയത്തും സാങ്കേതികവിദ്യയെക്കുറിച്ചല്ല അത് ഏതുതരം ആശയമാണ് നിങ്ങൾക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാനും വളരെ ലളിതമായ ഒരു സംവിധാനം സ്ഥാപിക്കാനും കഴിയുന്ന ആശയങ്ങൾ മനുഷ്യ ശരീര താപനിലയെ അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശരിയായ വഴി റെക്ടൽ ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ടെമ്പറൽ ആർട്ടറി ഈ ചെറിയ ഐആർ തെർമോമീറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും നമ്മുടെ ടെമ്പറൽ മേഖലയിലുടനീളം സ്കാൻ ചെയ്യുക തുടർന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഏറ്റവും ഉയർന്ന താപനിലയുളള ടെമ്പറൽ പ്രദേശങ്ങൾ പിടിക്കുന്നു നിങ്ങൾ ആ മൂല്യം വായിക്കുകയും അത് അടിസ്ഥാന ശരീര താപനിലയോട് വളരെ അടുത്താണെന്ന് പറയുകയും ചെയ്തു താപനിലയുടെ ആദ്യത്തെ രേഖാ സൂചന ലഭിക്കാൻ നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടതുണ്ടോ വേണ്ട നിങ്ങൾ അത് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്റർ മേടിക്കുക എന്നതാണ് ഏതെങ്കിലും ഫാർമസി ഷോപ്പിൽ 40 50 രൂപ അല്ലെങ്കിൽ 100 രൂപയ്ക്ക്നിങ്ങൾക്ക് ഈ ലളിതമായ ഒരു തെർമോമീറ്റർ ലഭിക്കും നിങ്ങൾക്ക് അത് വാങ്ങി നിങ്ങളുടെ നെറ്റിയിൽ വെയ്ക്കാം നെറ്റിയിൽ ഇടുമ്പോൾ ശരീര താപനിലയെ ആശ്രയിച്ച് പ്രത്യേക നിറം സൂചിപ്പിക്കാൻ പോകുന്നു സ്ട്രിപ്പിൽ ഒരു നിറത്തെ പ്രകാശിക്കാൻ പോകുന്നു ഞാൻ ചെയ്തത് അടിസ്ഥാന ശരീര താപനിലയുടെ ഒരു പ്രത്യേക സൂചനനിങ്ങൾക്ക് ഇവിടെ മധ്യത്തിൽ കാണാൻ കഴിയും കുറച്ചുകൂടി വിശദമായി ഇവിടെ കാണിച്ചുതരാം അതിനാൽ അവയിലൊന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനാൽ ഇത് ശരിയായി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അവയിലൊന്ന് ഇവിടെ പ്രകാശം പരത്തി സൂചിപ്പിക്കും അതിനുശേഷം ഇവിടെ മറ്റൊരു വർണ്ണത്തിലേക്ക് വ്യത്യസ്ത വർണ്ണങ്ങളിലേക്ക് അനുബന്ധ മാപ്പിംഗ് ഉണ്ട് ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ കീബോർഡ്ഈ പഴയ നോക്കിയമനോഹരമായ ഫോണിലേക്ക് ആ നിറങ്ങൾ മാപ്പ് ചെയ്യും ഇതിലേക്ക് മാപ്പ് ചെയ്യുക ലളിതമായ ഒരു അപ്ലിക്കേഷൻ ഇവിടെ എഴുതുക ഇവിടെ ആരെങ്കിലും അവർ അവിടെ തിരിച്ചറിഞ്ഞ നിറത്തെ ആശ്രയിച്ച് ബട്ടൺ അമർത്തുക ഒരു വ്യക്തിക്ക് ഇവിടെ അനുബന്ധ ബട്ടൺ അമർത്താൻ കഴിയും മാത്രമല്ല ആ വിവരങ്ങൾക്ക് പുറത്തുപോകാനും ആശയവിനിമയം നടത്താനും കഴിയും അതിനാൽ ഗ്രാമപ്രദേശങ്ങളിലോ നിങ്ങൾക്ക് ഒരു പ്രാഥമിക ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിറങ്ങൾ തിരിച്ചറിയാൻ ആകാത്ത ആളുകൾക്ക് അവർക്ക് ഒരു സന്ദേശം അയയ്ക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം അവർ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ രോഗിയെ ആണ് അവർ വളരെ ലളിതമായി ഈ സിസ്റ്റം ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ഇത് വളരെ കുറഞ്ഞ ചിലവാണ് ഗുണനിലവാരത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഇത് 40 മുതൽ 100 വരെ രൂപയ്ക്ക് എവിടെനിന്നും വാങ്ങാം അവയിൽ ഏതാണ് പ്രധാനമാക്കിക്കാട്ടുന്നതെന്ന് തിരിച്ചറിയുക നിങ്ങൾ ചുവടെ കണ്ടെത്തിയ അനുബന്ധ വർണം നിങ്ങൾ ഈ ഫോണിലേക്ക് പോയി ആ ബട്ടൺ അമർത്തിയാൽ ഇവിടെയുള്ള അപ്ലിക്കേഷൻ ഏതെങ്കിലും എസ് എം എസ് അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അത് അയയ്ക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കനത്ത സാങ്കേതികവിദ്യ ആവശ്യമില്ലെന്ന് കാണാൻ കഴിയും ഞാൻ പറയും ഇത് പോലെ നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയുംസെമി ഓട്ടോണമസ് വഴി അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് വഴി മനുഷ്യ ഇടപെടൽ ആണ് ഏറ്റവും നിർണായക കാര്യം നിങ്ങൾക്ക് ലളിതമായ ഒരു ഫോൺ ഈ നോക്കിയഫോൺ വാങ്ങാൻ കഴിയുന്നവയാണ് നോക്കിയ 3310 ഇതുമായി മടങ്ങിവരുന്നു ഇപ്പോൾ ഇത് ലഭ്യമാണ് നിങ്ങൾക്ക് ഒരു ലളിതമായ ഫോൺ വാങ്ങാം കാരണം ആ നിറം സൂചിപ്പിക്കുന്ന ഒരു എസ് എം എസ് സന്ദേശം മാത്രം അയയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ നിറം നിങ്ങൾ ഒരു പ്രത്യേക താപനിലയിലേക്ക് മാപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് ലളിതമായ മാപ്പിംഗ് നടത്താൻ കഴിയും അതിനാൽ നമുക്ക് ചെയ്യേണ്ടതെല്ലാം നോക്കാം അതിനാൽ ഞാൻ ഇവിടെ ഇടട്ടെ നമ്മൾക്ക് ഇപ്പോൾ ഉത്തരം നൽകേണ്ട വിമർശനാത്മകമായ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്തുചെയ്യാൻ കഴിയും എന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന മാപ്പ് ആണ് ലളിതമായ ഐആർ തെർമോമീറ്റർ വീണ്ടും ക്ഷമിക്കണം ഞാൻ തെറ്റായ പദം ഉപയോഗിച്ചു ഇത് ഐആർ അല്ല ഇത് ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്ററാണെന്ന് ഞാൻ പറയണം ഇതിനെ ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്റർ എന്ന് വിളിക്കുന്നു ഇത് 40 രൂപ മുതൽ ഏകദേശം 100 രൂപ വരെ എവിടെയും ലഭ്യമാണ് നിങ്ങളുടെ നെറ്റിയിൽ ഈ ലളിതമായ ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്റർ ഉപയോഗിക്കുക നിറത്തെ അടിസ്ഥാനമാക്കി അവയിലൊന്നിലേക്ക് മാപ്പ് ചെയ്യുന്ന ഈ മാപ്പിംഗ് വായിക്കുക നിങ്ങൾക്ക് ഇവിടെയുള്ള പ്രത്യേക മാപ്പിംഗ് mapping ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്റർ ആ പ്രദേശത്ത് നിങ്ങൾക്ക് അനുയോജ്യമായ നിറം പ്രമുഖമാക്കിക്കാണിക്കും പ്രത്യേക താപനിലയിലേക്കും നിറത്തിലേക്കും ഇപ്പോൾ മാപ്പുചെയ്തിരിക്കുന്ന ഈ കീബോർഡ് ഉപയോഗിക്കുക ആ ബട്ടൺ അനുബന്ധ ബട്ടൺ അമർത്തുക അങ്ങനെ ആ പ്രത്യേക വർണ്ണത്തിലേക്ക് മാപ്പുചെയ്ത താപനില മൂല്യംഏറ്റവും അടുത്തുള്ള ഒരു ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഒരു എസ് എം എസ് വഴി ആശയവിനിമയം നടത്തുന്നു അതിനാൽ ലളിതമായ ലിക്വിഡ് ക്രിസ്റ്റൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കഥയെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഇവയെല്ലാം സൂചിപ്പിക്കുന്നു ലഭ്യമായ ഈ തെർമോമീറ്ററുകളെ എൽസിടി അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്റർ എന്നും വിളിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്റർ തെർമോ സ്പോട്ട് എന്ന് വിളിക്കുന്ന ഈ ചെറിയ കമ്പനിയിൽ നിന്ന് വാങ്ങാം നിങ്ങൾക്ക് ഈ തെർമോ സ്പോട്ട് കാണാൻ കഴിയും ഇതിനെ ടീച്ചിംഗ് എയ്ഡ്സ് അറ്റ് ലോ കോസ്റ്റ് എന്നും വിളിക്കുന്നു ടീച്ചിംഗ് എയ്ഡ്സ് അറ്റ് ലോ കോസ്റ്റ് കാണുക എന്റെ കൈയിൽ ഒരു മാതൃക ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അതേ ചെറിയ ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്ററാണിതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സാധാരണയായി നവജാതശിശുവിന് നവജാത ശിശുക്കൾക്ക് അവർ ചെയ്യുന്നത് അവർ ഈ ചെറിയ കുത്ത് ഇടുന്നു താപനില ശരിക്കും 36 5 ആണെങ്കിൽ സാധാരണ ശരീര താപനില ആണെങ്കിൽഅവസാനം ഒരു സ്മൈലി നിങ്ങൾക്ക് കാണാം അതിനാൽആ സ്മൈലി താപനില നിലനിർത്തുന്നുവെന്നതിന്റെ കുഞ്ഞിന്റെ തെർമോറഗുലേഷൻ നന്നായിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നിങ്ങൾ സാധാരണയായി ഇത് കൈയുടെ താഴെയോ വലതുവശത്തെ വാരിയെല്ലിന് താഴെയോ ഇടുക ഈ രണ്ട് സ്ഥലങ്ങളും അളക്കേണ്ടതാണ് അതിനാൽ നിങ്ങളുടെ നിരീക്ഷണം ഒരു നവജാതശിശുവിന് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ലളിതമായ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്ററും ഫോണുംലളിതമായ എസ്എംഎസും ഉളള ഒരു കൂട്ടുകെട്ട് ഉപയോഗിക്കാം അതിനാൽ ഐഒടി തരത്തിലുള്ള ഒരു സിസ്റ്റത്തിനായി ഈ ഡിസൈനിന്റെ വലിയ കഥ എന്താണ് ആശയം പ്രധാനമാണ് കാര്യങ്ങൾ എങ്ങനെ ലളിതമാക്കാം എന്നത് പ്രധാനമാണ് നിങ്ങൾക്ക് അളവെടുക്കൽ വിദ്യകളുടെ സങ്കീർണ്ണത അല്ലെങ്കിൽ താപനില അല്ലെങ്കിൽ സെൻസറുകൾ എല്ലാ ആപ്ലിക്കേഷനുകൾകും ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് ഒരു ഹൈബ്രിഡ് രീതിയിൽ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് കൈകൊണ്ടു ചെയ്യുന്ന രീതികൾ ഉപയോഗിക്കാം സംയുക്ത രീതികൾ ഉപയോഗിച്ച് നിങ്ങളുടെ സിസ്റ്റങ്ങൾ ഒരുമിച്ച് നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഈ ഉദാഹരണത്തിൽ നവജാത ശിശുവിന്റെ താപനില അളക്കുന്നതിന്റെ ശരിയായ മാപ്പിംഗിനായി ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ചതായി നമ്മൾ കണ്ടു കക്ഷത്തിലുള്ള അല്ലെങ്കിൽ വലതുവശത്ത് വാരിയെല്ലിന് താഴെയായി അത് പ്രയോഗിക്കുന്നു നിങ്ങൾ മുതിർന്നവർക്കായി ഉപയോഗിക്കുമ്പോൾ ഇത് നെറ്റിയിൽ വയ്ക്കുന്നു ഇതെല്ലാം ലളിതമായ ഫോൺ ഉപയോഗിച്ച് അളക്കാനുള്ള സാധ്യതകളാണ് അതിനാൽ നിങ്ങൾക്ക് നിരവധി സാങ്കേതികവിദ്യകൾ സംയോജിപ്പിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു അളവെടുക്കാൻ കഴിയും എന്നതിന്റെ ഒരു ഉദാഹരണമാണിത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം മെഡിക്കൽ ഗ്രേഡ് തെർമോമീറ്ററുകൾ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്രേഡ് ഐആർ തെർമോമീറ്ററുകളെ പറ്റിയാണ് മൂന്നാമത്തെ ഉദാഹരണം നിങ്ങൾ ഒരു ഓട്ടോമൊബൈലിനുള്ളിൽ എസിയിലേക്ക് നോക്കി ഒരു ഓട്ടോമൊബൈലിന്റെ പ്രൊഫൈൽ എങ്ങനെ നിർമ്മിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും മറ്റൊരു തരം സെൻസർ ഇതും എന്നെ ചൂണ്ടിക്കാണിക്കാൻ അനുവദിക്കുക ഇതിന് ഇത്രയും നീളമുണ്ട് ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ പോലെ കാണപ്പെടുന്നു ഇത് ഒരു മെഡിക്കൽ കൂടിയാണ് ഇത് ഒരു ഐആർ തെർമോമീറ്ററാണ് പക്ഷേ ഇത് മെഡിക്കൽ ഗ്രേഡ് അല്ല കാരണം നിങ്ങൾക്ക് മെഡിക്കൽ ഗ്രേഡ് ആവശ്യമില്ല നിങ്ങൾ നിക്ഷേപം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഈ 0 1 ഡിഗ്രി സെൽഷ്യസ് കൃത്യത ആവശ്യമില്ല പക്ഷേ നിങ്ങൾ ഒരു വലിയ മേഖലയും വ്യത്യസ്ത പ്രദേശങ്ങളും നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരു വാഹനത്തിനായി വാങ്ങാൻ കഴിയുന്നത് 16 × 4 പിക്സൽ pixel ഐ ആർ തെർമോമീറ്റർ താപനിലയെ അളക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇതിനെ തെർമോമീറ്റർ എന്ന് വിളിക്കാം അതിനാൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയധികം പിക്സലുകൾ വേണ്ടത് നിങ്ങൾക്ക് 16 ഗുണം 4 പിക്സലുകൾ ആവശ്യമാണ് കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വലിയ പ്രദേശം അളക്കാൻ താൽപ്പര്യമുണ്ട് പക്ഷേ ഉയരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ല വിശാലമായ വീതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്കാവശ്യമുള്ളൂ പക്ഷേ നിങ്ങൾക്ക് വൈ Y അക്ഷത്തിൽ ഇത് ആവശ്യമില്ല അത് വളരെ ഉയർന്നത് ആവശ്യമില്ല പക്ഷേ എക്സ് x അക്ഷത്തിൽ ആവശ്യത്തിന് വലിയ പ്രദേശങ്ങൾ വലിയ കോണിൽ അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് അവ 30 ഡിഗ്രി x 120 ഡിഗ്രിയിൽ അളവെടുക്കാൻ ലഭിക്കും ഇത് നിങ്ങൾക്ക് വാഹനങ്ങളുടെ എല്ലാ അളവെടുക്കലിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് നമുക്ക് ഇത് അടുത്ത ഘട്ടമായി എടുക്കാം കൂടാതെ ഈ താപനിലയിലെ അളവ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം അതിനാൽ നിങ്ങൾ ആംബിയന്റ് താപനില അളക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരം സെൻസർ ആവശ്യമാണ് നിങ്ങൾ ഒരു നവജാത ശിശുവിന്റെ താപനില അളക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു തരം സെൻസർ ആവശ്യമാണ് ഒരു ഓട്ടോമൊബൈലിനുള്ളിൽ നിങ്ങൾക്ക് ഒരു തരം സെൻസർ ആവശ്യമാണ് വ്യത്യസ്ത ഐഒടി സിസ്റ്റത്തിന് കീഴിൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരം സെൻസർ ആവശ്യമാണ് നിങ്ങൾ കോഴിവളർത്തൽ കേന്ദ്രത്തിലെ താപനില അളക്കുകയാണ് എങ്കിൽ ഒരു കോഴി വളർത്തൽ കേന്ദ്രത്തിലുള്ള കോഴി കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേക താപനില അളക്കുന്നു എങ്കിൽ അവിടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാണെന്ന് അറിയുക അത് വളരെ തണുത്തതാണെങ്കിൽ കോഴി കുഞ്ഞുങ്ങൾ തമ്മിൽ വേദനിപ്പിക്കുന്നു അത് വളരെ ചൂടുള്ളതാണെങ്കിൽ അവ വിയർക്കുന്നു അവർക്ക് ശരിയായി ശ്വസിക്കാൻ കഴിയില്ല താപനില കൂടുതലാണെങ്കിൽ അവർക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ആത്യന്തികമായി ഉൽപാദനം വലുതായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കോഴിവളർത്തൽ കേന്ദ്രത്തിൽ നല്ലൊരു ഉൽപാദനം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ കോഴിവളർത്തൽ കേന്ദ്രത്തിലെ താപനില അളക്കുന്നത് കൃത്യമായിരിക്കണം അതിനാൽ നിങ്ങൾക്ക് അവിടെ മറ്റൊരു തരം താപനില അളവെടുപ്പ് ആവശ്യമാണ് അതിനാൽ ചുരുക്കത്തിൽ ഇത് നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഐഒടി സിസ്റ്റം പ്രധാനമായും ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു പ്രധാനപ്പെട്ട വശം അത് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് ഏറ്റവും പ്രധാനം ഏതൊരു ഐഒടി ആപ്ലിക്കേഷനിലും ഇത് മനസ്സിൽ സൂക്ഷിക്കുക സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയും അവ മനസിലാക്കുകയും ഇവയിൽ പല ആപ്ലിക്കേഷനുകൾക്കായി ഇവ എങ്ങനെ നിർമ്മിക്കാമെന്നും നോക്കാം വളരെയധികം നന്ദി